മുൻ പ്രഭാഷണത്തിൽ സെർച്ച് ട്രീസ്ലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നോക്കി ബാലൻസ്ഡ് അവസ്ഥ നിലനിർത്താൻ ഇവ കാര്യക്ഷമമാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു അതിനാൽ സെർച്ച് ട്രീസ് എങ്ങനെ ബാലൻസ്ഡ് ആക്കാം എന്ന് നമുക്ക് നോക്കാം അതിനാൽ ഞങ്ങൾ ഈ 7 പ്രവർത്തനങ്ങളാണ് നോക്കുന്നതെന്ന് ഓർക്കുക ഞങ്ങൾക്ക് ഒരു മൂല്യം തിരയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മൂല്യങ്ങൾ ഇൻസേർട് ചെയ്യാനും ഡെലീറ്റ് ചെയ്യാനും കഴിയും കൂടാതെ ഒരു ട്രീലെ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ മൂല്യം കണക്കാക്കാനും നിങ്ങൾക്ക് കഴിയും തന്നിരിക്കുന്ന മൂല്യത്തിന്റെ മുൻഗാമികളെയും പിൻഗാമികളെയും കണ്ടെത്തുക ഇവയെല്ലാം ഓർഡർ log n ആയിരിക്കുമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു ട്രീ സന്തുലിതമാണെങ്കിൽ അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ അവ നടപ്പിലാക്കിയതിനാൽ ഞങ്ങൾ ഒരൊറ്റ പാതയിലൂടെ മുകളിലേക്കും താഴേക്കും നടക്കും അതിനാൽ ഏറ്റവും മോശം അവസ്ഥ ട്രീലെ ഉയരം ആയിരിക്കും നമ്മുടെ ബാലൻസ്ഡ് ട്രീൽ ഉയരം എല്ലായ്പ്പോഴും വലുപ്പത്തിൽ ലോഗരിത്തമിക് ആയിരിക്കും ട്രീ അതിനാൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ലക്ഷ്യം വിശദീകരിക്കുക എന്നതാണ് ട്രീ വളരുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ എങ്ങനെ ബാലൻസ്ഡ് അവസ്ഥ നിലനിർത്താം അതിനാൽ ഒരു ട്രീൽ ബാലൻസ്ഡ് അവസ്ഥയെക്കുറിച്ച് നിരവധി ധാരണകളുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഒരു ശാരീരിക ബാലൻസ്ഡ് അവസ്ഥ പോലെയാണ് അതിനാൽ നിങ്ങൾ ഒരു പഴയ രീതിയിലുള്ള പച്ചക്കറി വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോയാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബാലൻസ് ഉണ്ടാകുമ്പോൾ ഏത് സമയത്തും നിങ്ങൾ ഒരു ട്രീ അതിന്റെ വേരുകൊണ്ട് പിടിക്കുകയാണെങ്കിൽ രണ്ട് വശങ്ങളും സന്തുലിതമായിരിക്കണം അവർ തുല്യരായിരിക്കണം അതിനാൽ ബാലൻസിന്റെ ഏറ്റവും നേരിട്ടുള്ള ധാരണ രണ്ടും കൃത്യമായി ഇടതുവശത്തുള്ള നോഡുകളുടെ എണ്ണം ഓരോ നോഡിനും വലതുവശത്തുള്ള നോഡുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായ ബൈനറി ട്രീസ് ലഭിക്കുമ്പോൾ അത് കാണാൻ എളുപ്പമാണ് അതിനാൽ ഉദാഹരണമായി നിങ്ങൾക്ക് ഈ ഘടനയുള്ള ഒരു ട്രീ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലെവൽ കൂടി നീട്ടുകയാണെങ്കിൽ ഇടതുവശത്തുള്ള ഓരോ നോഡിലും നിങ്ങൾ വലതുവശത്ത് നീട്ടണം എന്നാൽ ഇവയും ബാലൻസ്ഡ് അയിരിക്കണം അതിനാൽ നിങ്ങൾ ഇത് തീർച്ചയായും പൂർത്തിയാക്കണം നിങ്ങൾക്ക് 3 ലെവലുകൾ വരെ പൂർണ്ണമായി നിറച്ചതോ 4 ലെവലുകൾ വരെയോ ഉള്ള ഒരു മരം ഉണ്ടായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ഈ കൃത്യമായ വലുപ്പ ബാലൻസ് വേണമെങ്കിൽ അത് വളരെ നിയന്ത്രിതമാണ് അതിനാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കാം അവിടെ ഞങ്ങൾ കൃത്യമായി തുല്യരാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം അത് മിക്കവാറും ഒരുതരത്തിൽ ആയിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള തൽക്ഷണ ഘടനകൾ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് മാത്രം ഒരു ഇടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു ഇടതും വലതും ഉള്ളത് നിങ്ങൾക്ക് നിര മാത്രമാണ് ഈ മാനദണ്ഡ ഘടനകൾ ഇപ്പോൾ പൂർണ്ണമായ ബൈനറി ട്രീ അല്ല ഈ ആശയത്തിൽ ബാലൻസ്ഡ് അയിത്തീരുന്നു അതിനാൽ ഇത് ഞങ്ങൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകുന്നു നമുക്ക് കൂടുതൽ ട്രീസ് ഈ രീതിയിൽ ലഭിക്കും എന്നാൽ ഞങ്ങൾ ഇൻസെർട്ടുകളും ഡിലീറ്റുകളും ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടി ക്രമാനുഗതമായി നിലനിർത്തുന്നത് ബുദ്ധിമുട്ടാണ് അതിനാൽ ഞങ്ങൾ ബാലൻസ്ഡ് അവസ്ഥയെക്കുറിച്ചുള്ള വ്യത്യസ്ത ആശയങ്ങളിലേക്ക് പോകും ഞങ്ങൾ ഉപയോഗിക്കുന്ന ബാലൻസ്ഡ് എന്ന ആശയം വലുപ്പത്തെക്കുറിച്ചല്ല ഉയരത്തെക്കുറിച്ചാണ് അതിനാൽ ഉയരം റൂട്ട് മുതൽ ഒരു ലീഫ് വരെയുള്ള നിരവധി നോഡുകളാണെന്ന് ഞങ്ങൾ പറയും ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലെ കാണപ്പെടുന്ന ഒരു ട്രീ ഉണ്ടെങ്കിൽ ഇവിടെ ഉയരം 1 2 3 4 ആണ് കാരണം ഈ പാതയിൽ നമുക്ക് 4 നോഡുകൾ ഉണ്ട് അതിനാൽ ഉയരങ്ങൾ 4 ആയിത്തീരുന്നു ഇത് നോഡുകളുടെ അടിസ്ഥാനത്തിൽ അളക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പാതയുടെ നീളമാണ് നോഡുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അളന്നതിന്റെ കാരണം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വേർതിരിച്ചറിയാൻ കഴിയും ട്രീൽ നിന്ന് ശൂന്യമായ ട്രീ റൂട്ട് മാത്രമാണ് നിങ്ങൾ എഡ്ജുകളുടെ അടിസ്ഥാനത്തിൽ അളക്കുകയാണെങ്കിൽ ഒരു റൂട്ട് മാത്രമുള്ള വൃക്ഷത്തിന് 0 ഉയരം ഉണ്ടാകും കാരണം എഡ്ജുകളില്ലാത്തതിനാൽ ശൂന്യമായ ട്രീ അയിരിക്കും അതേസമയം നമ്മൾ അതിനെ നോഡുകളുടെ അടിസ്ഥാനത്തിൽ അളക്കുകയാണെങ്കിൽ ശൂന്യമായ ട്രീ 0 ഉയരവും റൂട്ട് മാത്രമുള്ള ട്രീ ഉയരവും 1 അതിനാൽ ഇവ രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും ഇപ്പോൾ ഞങ്ങളുടെ വലുപ്പ വ്യവസ്ഥയുടെ മുൻകാല ഇളവ് അനുസരിച്ച് ഹൈറ്റ് ബാലൻസ് ട്രീ ഇടത് ഉയരവും വലതുവശത്തെ ഉയരവും പരമാവധി വ്യത്യാസപ്പെടുന്ന ഒന്നായിരിക്കും 1 ഇപ്പോൾ മുമ്പത്തെ കാര്യങ്ങളിൽ ഇത് കൂടുതൽ അയവുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ തീർച്ചയായും എനിക്ക് ഇതുപോലുള്ള ഒരു ഹൈറ്റ് ബാലൻസ് ട്രീ ഉപയോഗിച്ച് തുടങ്ങാം എന്നിട്ട് ഇതുപോലുള്ള ഒരു ഹൈറ്റ് ബാലൻസ് ട്രീ രൂപപ്പെടുത്താൻ എനിക്ക് ഇപ്പോൾ ഇത് ബന്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ ഇത് ഹൈറ്റ് 3 ആണ് എനിക്ക് ഒരു ഹൈറ്റ് 2 ട്രീ അയി ബന്ധിപ്പിക്കാനും ഇതുപോലുള്ള ഒരു ഹൈറ്റ് ബാലൻസ് ട്രീ രൂപപ്പെടുത്താനും കഴിയും അതിനാൽ ഇടത് സബ് ട്രീ ഹൈറ്റ് 3 ആണ് വലത് സബ് ട്രീ ഹൈറ്റ് 2 ഇതിൽ ഇടത് സബ് ട്രീ ഹൈറ്റ് 2 ആണ് വലത് സബ് ട്രീ ഹൈറ്റ് 1 എന്നിങ്ങനെ നമുക്ക് വ്യത്യാസം തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ തൽക്ഷണ വലുപ്പത്തിന് ഇവിടെ വലുപ്പം 4 ഉം വലുപ്പവും 2 എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ പോലും വലുപ്പം ഉയരത്തിൽ എക്സ്പോണൻഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ ഉയരം ലോഗരിത്തമിക് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം വലുപ്പത്തിൽ അതിനാൽ ഈ ട്രീനെ എവിഎൽ ട്രീ എന്ന് വിളിക്കുന്നു സ്വതന്ത്രമായി കണ്ടുപിടിച്ച രണ്ട് വ്യക്തികളുടെ പേരിലാണ് ആഡെൽസൺ വെൽസ്കി എന്നും സ്വതന്ത്രമായി ലാൻഡിസ് എന്നും അറിയപ്പെടുന്നത് അതിനാൽ എല്ലാ നോഡുകളിലും ഇടത് ഉയരവും വലത് സബ് ട്രീടെ ഉയരവും പരമാവധി 1 എന്നതിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ഒരു ഹൈറ്റ് ബാലൻസ്ഡ് ട്രീ അണ് AVL ട്രീ അതിനാൽ ഉയരം തമ്മിലുള്ള വ്യത്യാസം വെറും സ്ലോപ്പ് ആയി നമുക്ക് പരാമർശിക്കാം അതിനാൽ ഞങ്ങളുടെ ചിത്രങ്ങളിൽ അവബോധപൂർവ്വം ഉണ്ട് അതിനാൽ ഇത് അൺബാലൻസ്ഡ് അവവസ്ഥയിലാണെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നു അതിനാൽ നമുക്ക് ഈ വഴി വരെയോ ഈ വഴി വരെയോ കഴിയാം അതിനാൽ ഞങ്ങൾ ഇതിനെ സ്ലോപ്പ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ സ്ലോപ്പ് ഇടത് മൈനസ് ഉയരത്തിന്റെ ഉയരം ആണെന്ന് ഞങ്ങൾ പറയട്ടെ അതിനാൽ ഇടതുവശത്തെ ഉയരം വലതുവശത്തേക്കാൾ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല സ്ലോപ്പ് ഉണ്ട് ഇടത്തിന്റെ ഉയരം വലത്തേതിനേക്കാൾ വലുതാണെങ്കിൽ നിങ്ങൾക്ക് വലത് ഉണ്ട് ഇടത് വലത്തേതിനേക്കാൾ ചെറുതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് സ്ലോപ്പ് ആണ് ഇടത് വലത്തേതിനേക്കാൾ വലുതാണ് നിങ്ങൾ പോസിറ്റീവ് സ്ലോപ്പ് ആണ് അതിനാൽ ഒരു ബാലൻസ്ഡ് ട്രീൽ ഹൈറ്റ് വ്യത്യാസം കേവല മൂല്യം 1 ആയിരിക്കണം നിങ്ങൾക്ക് ട്രീലുടനീളം സാധ്യമായ മൂന്ന് സ്ലോപ്പ് മാത്രമേ ഉണ്ടാകൂ ഒന്നുകിൽ അവ ഒന്നുതന്നെയാണ് അല്ലെങ്കിൽ അത് മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് 1 ആണ് നിലവിലെ മൂല്യം സ്ലോപ്പ് 1 മൈനസ് 1 പ്ലസ് 1 ആണെങ്കിൽ നിങ്ങൾ ഒരു നോഡ് ഇല്ലാതാക്കുമ്പോൾ നിങ്ങൾക്ക് ഉയരങ്ങളിൽ ഒന്ന് 1 കുറയ്ക്കാനാകുമെന്ന് വളരെ എളുപ്പത്തിൽ വാദിക്കാൻ കഴിയും അതിനാൽ ഉയരം വ്യത്യാസം 1 മുതൽ 2 വരെ അല്ലെങ്കിൽ നിങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഉയരം വ്യത്യാസം വരുത്താം വീണ്ടും 1 മുതൽ 2 വരെ പോകുക അതിനാൽ ഒരൊറ്റ ഇൻസേർട്നോ ഒരൊറ്റ ഡെലീറ്റ്നോ ശേഷമുള്ള പുതിയ സ്ലോപ്പ് മിക്കവാറും മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് 2 മൈനസ് 2 അല്ലെങ്കിൽ പ്ലസ് 2 ആകാം അതിനാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഒരു ഇൻസേർട് അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾ ഉടൻ തന്നെ ട്രീ ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കും എന്നതാണ് അതിനാൽ നമുക്ക് മൈനസ് 2 അല്ലെങ്കിൽ പ്ലസ് 2 ൽ നിന്ന് ഒരൊറ്റ അസ്വസ്ഥത ഉണ്ടാകാം അത് ഒരിക്കലും വളരെ മോശമായ അൺബാലൻസ്ഡ് അവസ്ഥയായി മാറുകയില്ല ഞങ്ങൾ ഉടൻ തന്നെ മൈനസ് 1 മുതൽ പ്ലസ് 1 വരെ ബാലൻസ് പുനസ്ഥാപിക്കും അതിനാൽ നിങ്ങൾ ഈ റീബാലൻസ് അവസ്ഥ ചെയ്യും ഞങ്ങൾ ഈ റീബാലൻസ് അവസ്ഥയും ചെയ്യും അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ഒരു ഇൻസേർട് ചെയ്യും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയും ഇൻസേർട് ചെയ്യാനും ഒരു സ്ഥലം കണ്ടെത്തുകയും ചെയ്യും അതിനാൽ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു പുതിയ നോഡ് ചേർക്കുന്നു അതിനാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ചില അൺബാലൻസ്ഡ് അവസ്ഥ ഉണ്ടാകാം അതിനാൽ ഞങ്ങൾ അത് പരിഹരിക്കും തുടർന്ന് ഞങ്ങൾ ഈ പാതയിലേക്ക് മുകളിലേക്ക് പോകും ഞങ്ങൾ അവിടെ പോകുകയും ഇവിടെ പാത ശരിയാക്കുകയും ചെയ്യും എന്നാൽ ഈ ഘട്ടത്തിൽ താഴെ കാണുന്ന ട്രീ ബാലൻസ്ഡ് അണെന്ന് നിങ്ങൾ ഉഹിക്കും അതിനാൽ പരിധിക്ക് പുറത്തുള്ള സ്ലോപ്പ്നെ ഞങ്ങൾ വീണ്ടും റീബാലൻസ് അക്കുമ്പോഴെല്ലാം താഴെയുള്ള സബ്ട്രീ ഇതിനകം ബാലൻസ്ഡ് അണെന്ന് നിങ്ങൾ അനുമാനിക്കും കാരണം നമ്മൾ കാണുന്നതുപോലെ ഈ ബാലൻസിംഗ് താഴെത്തട്ടിലായിരിക്കും അതിനാൽ ബാലൻസ് നീക്കം ചെയ്യുന്ന ഒരൊറ്റ ഓപ്പറേഷന് ശേഷം ഞങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാധാരണ സാഹചര്യം ഇതാ അതിനാൽ ഞങ്ങൾക്ക് സ്ലോപ്പ് പ്ലസ് 2 അല്ലെങ്കിൽ മൈനസ് 2 ഉള്ള ഒരു നോഡ് ഉണ്ടായിരിക്കാം അതിനാൽ നമുക്ക് പ്ലസ് 2 മൈനസ് 2 തിരിച്ച് സമമിതിയാകാം അതിനാൽ നമുക്ക് x എന്ന് വിളിക്കുന്ന ഒരു നോഡ് ഉണ്ട് അതിന് സ്ലോപ്പ് പ്ലസ് 2 ഉണ്ട് അതിന്റെ അർത്ഥം എന്താണ് അതിന് ഒരു ഇടത് ട്രീ വലത് ട്രീ ഉണ്ട് ഇടത് ട്രീടെ ഉയരം വലത് ട്രീടെ ഉയരത്തേക്കാൾ 2 കൂടുതലാണ് ഈ സ്ലോപ്പ് വലത് അല്ലെങ്കിൽ ഇടത് മൈനസ് വലത്തോട്ടോ ഇടത്തോട്ടോ ഓർക്കുക അതിനാൽ h പ്ലസ് 2 മൈനസ് h 2 ആയിരിക്കും ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ സ്ലോപ്പ്കളും കൂടുതലും പ്ലസ് 1 അല്ലെങ്കിൽ മൈനസ് 1 ആണെന്ന് ആവർത്തിച്ച് ഞങ്ങൾ അനുമാനിക്കാൻ പോകുന്നു അതിനാൽ ഇതിന് താഴെയുള്ള എല്ലാം പരിഹരിക്കപ്പെട്ടുവെന്നും x ലെ ഈ സബ് ട്രീ ഏക ബാലൻസ് x ആണെന്നും ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇടതുവശത്ത് ഉയരം h പ്ലസ് 2 ഉള്ളതിനാൽ അതിന് കുറഞ്ഞത് 2 ഉയരം ഉണ്ട് h ന് ഏറ്റവും ചുരുങ്ങിയത് കുറഞ്ഞത് 0 ആകാം അതിനാൽ ഇതിന് കുറഞ്ഞത് 2 എങ്കിലും ഉയരം ഉണ്ട് അതിനാൽ ഇവിടെ കുറഞ്ഞത് 1 നോഡെങ്കിലും ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 2 എന്നാൽ ഇവിടെ കുറഞ്ഞത് 2 നോഡുകളെങ്കിലും ഉണ്ടെന്നാണ് അതിനാൽ നമുക്ക് പ്രത്യേകിച്ച് 1 നോഡെങ്കിലും ഉണ്ട് അതിനാൽ ഇത് റൂട്ട് ആണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇത് വിപുലീകരിക്കും റൂട്ടിന് പൊതുവെ 2 സബ് ട്രീ ഉണ്ടാകും അതിനാൽ ഇപ്പോൾ ഈ മുഴുവൻ ഉയരവും h പ്ലസ് 2 ആണ് അതിനാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച ഈ പുതിയ നോഡ് ഇപ്പോൾ നോക്കാം അതിനാൽ ഈ സ്ലോപ്പ് മൈനസ് 1 0 അല്ലെങ്കിൽ പ്ലസ് 1 ആണ് ഞങ്ങൾ കുറച്ച് താഴേക്ക് റീബാലൻസിംഗ് ചെയ്യാൻ പോകുന്നു അതിന് താഴെയുള്ള എല്ലാം ഞങ്ങൾ കരുതുന്നു അതിനാൽ y യുടെ സ്ലോപ്പ് എന്താണെന്നതിനെ അടിസ്ഥാനമാക്കി ഞാൻ ചില കേസ് വിശകലനം ചെയ്യാൻ പോകുന്നു അതിനാൽ y യുടെ സ്ലോപ്പ് 0 അല്ലെങ്കിൽ പ്ലസ് 1 ആയിരിക്കുന്ന സാഹചര്യം നമുക്ക് ആദ്യം നോക്കാം അതിനാൽ ഇത് 0 അല്ലെങ്കിൽ പ്ലസ് 1 ആണെങ്കിൽ ഇതിനർത്ഥം ഇത് മുഴുവൻ h പ്ലസ് 2 ആണെന്ന് ഓർക്കുക അതിൽ 1 നോഡ് ഇവിടെയുണ്ട് അതിനാൽ അത് ലെഫ്റ് ചൈൽഡ് കുറഞ്ഞത് h പ്ലസ് 1 ആയിരിക്കണം അത് സ്ലോപ്പ് 0 അല്ലെങ്കിൽ പ്ലസ് 1 ആയതിനാൽ റൈറ്റ് ചൈൽഡ് ഒന്നുകിൽ h പ്ലസ് 1 ആണെങ്കിൽ അല്ലെങ്കിൽ സ്ലോപ്പ് പ്ലസ് 1 ആണെങ്കിൽ h ആണ് അതിനാൽ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ് കാരണം നമുക്ക് അൺബാലൻസ്ഡ് നോഡ് x താഴെ ഉള്ളതെല്ലാം ബാലൻസ്ഡ് ആണ് എന്നാൽ പിന്നിലെ സാഹചര്യം എന്താണെന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു അതിനാൽ x ന് പ്ലസ് 2 ന്റെ ബാലൻസ്ഡ് അൺബാലൻസ്ഡ് അവസ്ഥ ലഭിക്കുന്നു അതിനു താഴെ എന്തുകൊണ്ടാണ് നമുക്ക് 0 അല്ലെങ്കിൽ പ്ലസ് 1 എന്ന് അനുമാനിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു അതിനാൽ ഈ റോറ്റഷനിൽ നിങ്ങൾ ഇത് y x താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ സബ് ട്രീ നോക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് 3 സബ് ട്രീ ഉണ്ട് ഞങ്ങൾക്ക് TLL TLR TR എന്നിവയുണ്ട് അതിനാൽ TR എന്നത് x ന്റെ വലതുവശത്തും അത് y ന്റെ വലതു ഭാഗവുമാണ് അതിനാൽ ഇത് രണ്ടിന്റെയും വലതുഭാഗമാണ് TLR എന്നത് x ന്റെ ഇടതുവശത്ത് y യുടെ വലതുവശത്താണ് TLL y യുടെ ഇടതുവശത്ത് x ന്റെ ഇടത് അതിനാൽ നിങ്ങൾ അവിടെ പോയാൽ TR രണ്ടിന്റെയും വലതുവശത്തും TLR x ന്റെ ഇടതുവശത്ത് y യുടെ വലതുവശത്തും TLL രണ്ടിന്റെയും ഇടതുവശത്തും കാണുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് പരിശോധിക്കാനാകുന്ന എല്ലാ മൂല്യങ്ങളും ഒരു തിരയൽ വൃക്ഷ പ്രശ്നമായി നിലവിൽ സംഘടിപ്പിക്കപ്പെടും പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ലോപ്പ്ലേക്ക് നോക്കുകയാണെങ്കിൽ HL പ്ലസ് 1 TLR h പ്ലസ് 1 അല്ലെങ്കിൽ h TR h എന്നിവയാണ് TLL ന്റെ സ്ലോപ്പ് എന്ന് നമുക്കറിയാവുന്ന ചിലത് ഞങ്ങൾക്ക് ഈ സ്ലോപ്പ് പാരമ്പര്യമായി ലഭിച്ചു അതിനാൽ ഈ ഘട്ടത്തിൽ ഞാൻ ഇത് എല്ലാ ഉയരത്തിലും നോക്കുകയാണെങ്കിൽ ഇത് ഒന്നുകിൽ h പ്ലസ് 1 അല്ലെങ്കിൽ പരമാവധി h പ്ലസ് 2 ആണ് അതിനാൽ ഇത് h പ്ലസ് 2 അല്ലെങ്കിൽ h പ്ലസ് 1 ആണ് ഇത് h പ്ലസ് 2 ആണെങ്കിൽ y ലെ ഉയരം സ്ലോപ്പ് മൈനസ് 1 ആണ് അത് h പ്ലസ് 1 ആണെങ്കിൽ h 1 ൽ രണ്ട് വശങ്ങളും y എന്നത് 0 ആണ് നിങ്ങൾ x നോക്കിയാൽ ഇവിടെ നമുക്ക് h 1 ഉണ്ട് ഇവിടെ ഞങ്ങൾ h ഉണ്ട് അതിനാൽ വ്യത്യാസം 0 അല്ലെങ്കിൽ പ്ലസ് 1 ആണ് അതിനാൽ x ഇപ്പോൾ ബാലൻസ്ഡ് ആണ് y ബാലൻസ്ഡ് ആണ് അനുമാനത്തോടെ എല്ലാ ഗ്രെയ് ഉപവൃക്ഷങ്ങളും സബ് ട്രീസ് ബാലൻസ്ഡ് ആണ് അതിനാൽ ഒരു ശരിയായ റോറ്റഷനിലൂടെ ഞങ്ങൾ ട്രീ റീബാലൻസ് ചെയ്തു അതിനാൽ മൂന്നാമത്തെ സാഹചര്യം അത് 0 അല്ലെങ്കിൽ പ്ലസ് 1 അല്ല മൈനസ് 1 ആണ് അതിനാൽ 0 അല്ലെങ്കിൽ പ്ലസ് 1 സാധ്യതയുള്ള കേസ് ഞങ്ങൾ ഇതിനകം കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് മൈനസ് 1 ആണെങ്കിൽ ഇതിനർത്ഥം വലത് സബ് ട്രീ അടുത്ത ഇടത് സബ് ട്രീനെക്കാൾ കർശനമായി ഉയരമുള്ളതായിരിക്കണം എന്നാണ് അതിനാൽ മുഴുവൻ കാര്യങ്ങളും വീണ്ടും ഓർക്കുക h പ്ലസ് 2 എന്നത് ഉയർന്ന അനുമാനമാണ് കാരണം മുഴുവൻ കാര്യത്തിനും പ്ലസ് 2 ഉണ്ട് അതിനാൽ ഇത് മുഴുവൻ h പ്ലസ് 2 ആണ് ഇത് h ആണ് ഇപ്പോൾ ഈ h പ്ലസ് 2 ഇപ്പോൾ y ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ളവ h 1 വലതുവശത്തും h 1 ഇടതുവശത്ത് വരുകയും വേണം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഈ നോഡ് വികസിപ്പിക്കാൻ പോകുന്നു ഇപ്പോൾ ഇത് ഒരു h പ്ലസ് 1 ആണ് അതിനാൽ ഇവിടെ കുറഞ്ഞത് 1 നോഡെങ്കിലും 0 ഉള്ള ഒരു മാർഗ്ഗം പോലും ഇതിന് കുറഞ്ഞത് ഒരു റൂട്ട് നോഡെങ്കിലും ഉണ്ട് അതിനാൽ ഞങ്ങൾ നേരത്തെ y തുറന്നുകാട്ടിയതുപോലെ ഞങ്ങൾ ഒരു റൂട്ട് നോഡ് വെളിപ്പെടുത്തും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഈ TLR 2 സബ് ട്രീകളായ TLRL നൊപ്പം z ആയി ചെലവഴിക്കുന്നു അതിനാൽ അവരുടെ യഥാർത്ഥ ട്രീ ആരംഭിക്കാനും ഇടത് വലത്തേക്ക് പോകാനും ഇടത്തേക്ക് പോകാനും ഇത് അനുവദിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അതിനാൽ TLRL ഇടത്തേക്ക് പോകുക വലത്തേക്ക് പോകുക വലത്തേക്ക് പോകുക അതിനാൽ ഇത് TLRR ആണ് അതിനാൽ ഇത് സബ് ട്രീ നൊട്ടേഷനാണ് അതിനാൽ ഇത് മുഴുവൻ h പ്ലസ് 1 ആയിരുന്നു അതിനാൽ ഈ h പ്ലസ് 1 ഇരുവശത്തും വരാം അതിനാൽ ഇത് h അല്ലെങ്കിൽ h മൈനസ് 1 അല്ലെങ്കിൽ ഇത് h അല്ലെങ്കിൽ h മൈനസ് 1 ആണ് കാരണം ഇവിടെ രണ്ടും h മൈനസ് 1 ആണ് അപ്പോൾ മുഴുവൻ കാര്യങ്ങളും h പ്ലസ് 1 ആകാൻ കഴിയില്ല അതിനാൽ കുറഞ്ഞത് 1 h ആണ് അത് ബാലൻസ്ഡ് ആണ് എന്നാൽ ഈ ട്രീസ് ഒരെണ്ണമെങ്കിലും h ഞാൻ മറ്റേതിന് h അല്ലെങ്കിൽ h മൈനസ് 1 ആകാം അത് ഏത് ആണെങ്കിലും പ്രശ്നമല്ല അതിനാൽ ഇപ്പോൾ എനിക്ക് രണ്ട് ഘട്ടങ്ങളുള്ള നടപടിക്രമമുണ്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സമാനമായ റോടേഷൻ ആണ് എന്നാൽ ഈ രണ്ട് നോഡുകൾ ഉൾപ്പെടുന്ന ഇടതുവശത്ത് അതിനാൽ ഞാൻ ഈ സബ് ട്രീ z കൊണ്ട് തൂക്കിയിടും അതിനാൽ ഞാൻ ഈ സബ് ട്രീ തൂക്കിയിടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് താഴെ കാണുന്ന ഈ 3 ട്രീ ഞാൻ വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടതാണ് കൂടാതെ ചിലത് TLLനൊപ്പം ശരിയാക്കുകയും y രണ്ടിന്റെയും ഇടതുവശത്തും z TLRR രണ്ടും വലതുവശത്തുമാണ് y ഉം z ഉം TLRL ഉം പറഞ്ഞതിന്റെ ഇടതുവശത്തും 1 ന്റെ വലതുവശത്തുമാണ് ഇപ്പോൾ നിങ്ങൾ തിരികെ പോയി എല്ലാ ഉയരങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ y യിൽ എനിക്ക് ഉയരം 0 അല്ലെങ്കിൽ എനിക്ക് ഉയരം കൂടി 1 നിങ്ങൾ ഇപ്പോൾ z ൽ നോക്കിയാൽ ഇടത് വശത്ത് ഇപ്പോൾ h plus 1 ഉം വലതു വശം h അല്ലെങ്കിൽ h മൈനസ് 1 ആണ് അതിനാൽ h പ്ലസ് 1 ഉം ഇത് h ഉം ആണെങ്കിൽ എനിക്ക് പ്ലസ് 1 ലഭിക്കും ഇത് h പ്ലസ് 1 ആണെങ്കിൽ ഈ h മൈനസ് 1 എനിക്ക് പ്ലസ് 2 അങ്ങനെ ഈ പ്രക്രിയയിൽ ഇപ്പോൾ എനിക്ക് x മാത്രമല്ല അൺബാലൻസ്ഡ് താൽക്കാലികമായി സൃഷ്ടിക്കപ്പെട്ടതും z എന്നത് അൺബാലൻസ്ഡ് അവസ്ഥയാണ് അതിനാൽ ഇത് അൺബാലൻസ്ഡ് അവസ്ഥയാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ ഇത് ഒരു അൺബാലൻസ്ഡ് അവസ്ഥയിലേക്ക് നയിച്ചേക്കാം കാരണം ഇത് h ഉം h ഉം മൈനസ് h 1 ആണെന്ന് എനിക്കറിയില്ല എന്നാൽ ഇത് ഇന്റർമീഡിയറ്റ് ഘട്ടങ്ങളിൽ മാത്രമാണ് അതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്തത് അങ്ങനെ നേരത്തെ ഞങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾ ഇവിടെ ഇടത് റോറ്റഷനിൽ ചെയ്യും അതിനാൽ ഞാൻ ഇത് ഒരു വലത് റൊട്ടേഷൻ x ൽ പിന്തുടരാൻ പോകുന്നു അതിനാൽ ഞങ്ങൾ ഒരു ടെക്സ്റ്റ് എഴുതുന്നു z മുകളിലേക്ക് പോകും x താഴേക്ക് പോകുന്നു ഇപ്പോൾ വീണ്ടും ഞങ്ങൾ 4 ട്രീ തൂക്കിയിടുന്നു നിങ്ങൾക്ക് തൂങ്ങിക്കിടക്കാൻ ഒരു വഴിയേയുള്ളൂ അത് തിരികെ പോകുമെന്നും അവയുടെ തൂക്ക് പരിശോധിക്കുമെന്നും നിങ്ങൾക്ക് ഉറപ്പുവരുത്താനാകും അതിനാൽ TRR z x എന്നിവയേക്കാൾ വലുതായിരിക്കണം TLL y z എന്നിവയേക്കാൾ ചെറുതായിരിക്കണം ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമുണ്ട് അതായത് നിങ്ങൾ y യുടെ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ അത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ അത് പ്ലസ് 1 ആകാം കാരണം ഇത് h മൈനസ് 1 ആകാം നിങ്ങൾ x നോക്കിയാൽ ഇത് മൈനസ് 1 ആകാം കാരണം ഇത് h മൈനസ് 1 ആകാം ഇത് തീർച്ചയായും h അല്ലെങ്കിൽ നമ്മൾ 0 ആകാം പക്ഷേ ഈ മുഴുവൻ കാര്യവും തീർച്ചയായും h പ്ലസ് 1 ആണ് കാരണം എനിക്ക് കുറഞ്ഞത് 1 വലിപ്പമുള്ള സബ് ട്രീ ഉണ്ട് h ഈ മുഴുവൻ കാര്യവും വീണ്ടും h പ്ലസ് 1 ആണ് കാരണം എനിക്ക് കുറഞ്ഞത് 1 വലിപ്പമുള്ള വലിപ്പമുണ്ട് h അതിനാൽ 0 ലെ സ്ലോപ്പ് 0 ആണ് അതിനാൽ x y z എന്നീ മൂന്ന് നോഡുകൾക്കും ശരിയായ ശ്രേണിയിൽ സ്ലോപ്പ് ഉണ്ട് അതിനാൽ ഞാൻ വീണ്ടും ബാലൻസ് സംഭരിക്കും അതിനാൽ ഇത് സംഗ്രഹിക്കാൻ ഞങ്ങൾ പറഞ്ഞത് പ്ലസ് 2 ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ x ന്റെ ലെഫ്റ് ചൈൽഡ് നോക്കി y എന്ന് വിളിക്കുക y ന്റെ സ്ലോപ്പ് 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ x ന്റെ വലതുവശത്ത് നമ്മൾ റോടേഷൻ ചെയുന്നു y ലെ സ്ലോപ്പ് മൈനസ് 1 ആണെങ്കിൽ ആദ്യം ഇത് തിരിക്കുക തുടർന്ന് y തിരിക്കുക ഒന്നുകിൽ നമ്മൾ x ൽ തിരിക്കും പക്ഷേ ആദ്യം y കറങ്ങുന്നത് മൈനസ് 1 ലേക്ക് കാണിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു സെറ്റ് കേസ് ഉണ്ടെങ്കിൽ x ലെ സ്ലോപ്പ് മൈനസ് 2 ആണെങ്കിൽ അങ്ങേയറ്റത്തെ ഒരു സമമിതി ചിത്രം ഉണ്ടായിരിക്കും അതിനാൽ ഞങ്ങൾ വലത് ഭാഗം വെളിപ്പെടുത്തേണ്ടിവരും അതിനാൽ ഞാൻ അതിനെ y എന്ന് വിളിക്കും അതിനാൽ y യുടെ സ്ലോപ്പ് മൈനസ് 1 അല്ലെങ്കിൽ 0 ആണെങ്കിൽ അത് സമമിതി ഓർക്കുന്നുവെങ്കിൽ ഞങ്ങൾ ഒരൊറ്റ ഇടത് റോടേഷൻ x ചെയ്യും എന്നതാണ് അടിസ്ഥാന പ്രവർത്തനം അല്ലാത്തപക്ഷം ഞങ്ങൾ ആദ്യം y ൽ ഒരു ശരിയായ റൊട്ടേഷൻ ചെയ്യും y ൽ സ്ലോപ്പ് പ്ലസ് 1 ആണെങ്കിൽ ഞങ്ങൾ ഒരു ഇടത് റൊട്ടേഷൻ തന്നെ ചെയ്യും അതിനാൽ ഞങ്ങൾ അവരുടെ മൈനസ് 2 കേസുകൾ വിശദമായി നോക്കുന്നില്ല പക്ഷേ ഇത് പ്ലസ് 2 കേസിന്റെ സമമിതിയാണെന്ന് കാണാൻ എളുപ്പമാണ് അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ റോടേഷൻ ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ വരച്ച് അത് കണ്ടെത്താനാവുക അതിനാൽ നിങ്ങൾ എല്ലാത്തിനും പേരുകൾ നൽകുക അതിനാൽ ഞങ്ങൾ ഈ x നെ y മുകളിലേക്ക് തിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥ t ആണ് അതിനാൽ t 2 ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് നോഡിൽ മാറ്റാൻ കഴിയില്ല അതിനാൽ tയിലെ മൂല്യം ഞങ്ങൾ ഇവിടെ ഓർക്കുന്നു അതിനാൽ അതിൽ അടങ്ങിയിരിക്കുന്ന x y എന്നീ പേരുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് തുടർന്ന് ഈ മൂന്ന് ട്രീസ് TLL TLR TR എന്നിവ ചൂണ്ടിക്കാണിക്കുന്ന ഈ കൌണ്ടറുകൾ ഞങ്ങൾ വീണ്ടും ബന്ധിപ്പിക്കും അതിനാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ മൂല്യം y ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക എന്നതാണ് തുടർന്ന് നമ്മൾ ചെയ്യുന്നത് ഈ നോഡ് വലതുവശത്തേക്ക് വരുന്നതാണ് ഞങ്ങൾ അത് മൂല്യം x ആയി പുനസജ്ജമാക്കുക എന്നതാണ് അതിനാൽ ഞങ്ങൾ ഇവിടെ ഒരു x ഇട്ടു ഞങ്ങൾ അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഇടതുവശത്ത് ആ മുകളിലെ നോഡിന് താഴെ തൂക്കിയിട്ടിരിക്കുന്നു TLL ഉം ഇടതുവശത്ത് ഈ വലത് പുതിയ വലത് നോഡിന് താഴെ വലതുവശത്ത് TLR ഇട്ടാൽ TR അതിനാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പുനസമാഗമം ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന അൺ ഹുക്കിംഗും റീ ഹുക്കിംഗ് മരങ്ങളും പോലെയാണ് ഞങ്ങൾ എല്ലാ പേരുകളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു അതിനാൽ എല്ലാം അൺ ഹുക്ക് ആന്റ് റീ ഹുക്ക് ശരിയായി അതിനാൽ ഇത് വളരെ ലളിതമാണ് അതിനാൽ ഈ ഇടത് വലത് പോയിന്ററുകളിൽ ചിലത് ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള നിരന്തരമായ പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതിനാൽ മരത്തിന്റെ വലുപ്പം പരിഗണിക്കാതെ തന്നെ ഇത് വളരെ പ്രാദേശികമായ പ്രവർത്തനമാണ് അതിനാൽ നമുക്ക് ഇത് ഒരു സ്ഥിരമായ യൂണിറ്റ് പ്രവർത്തനമായി കണക്കാക്കാം ഇടതുപക്ഷത്തിന് സമാനമായ ഒരു കാര്യം ഞങ്ങൾ പേരുകൾ നൽകുന്നു ഞങ്ങൾ മുമ്പ് ചെയ്തതുപോലെ കൃത്യമായി ഈ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ വീണ്ടും ഇവ നിരന്തരമായ പ്രവർത്തനങ്ങളാണ് അത് ഇടത്തേക്ക് തിരിക്കുക അതിനാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ആ രണ്ട് റൊട്ടേഷനുകളുണ്ട് പിന്നെ എന്താണ് റിബാലൻസിംഗ് സെറ്റ് റീബാലൻസിംഗ് സെറ്റ് എനിക്ക് പ്ലസ് 2 ഉള്ള നോഡ് ഉണ്ടെങ്കിൽ ഞാൻ അത് തുറന്നുകാണിക്കും ലെഫ്റ് ചൈൽഡ് ഞാൻ അത് സ്ലോപ്പ് പരിശോധിക്കും സ്ലോപ്പ് മൈനസ് 1 ആണെങ്കിൽ ആദ്യം ഞാൻ അവിടെ ഒരു ഇടത് റോടേഷൻ ചെയ്യും തുടർന്ന് പരിഗണിക്കാതെ ഞാൻ മുകളിൽ ഒരു ശരിയായ റോടേഷൻ ചെയ്യും സമമിതി കേസുകളിൽ എനിക്ക് മുകളിൽ 2 മൈനസ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ അതിന് ഒരു റൈറ്റ് ചൈൽഡ് ഉണ്ടാകും തുടർന്ന് ഇത് പ്ലസ് 1 ആയിരിക്കുമ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു വലത് റൊട്ടേഷനിലേക്ക് പോകുമ്പോൾ പിന്നെ ഇടത് റോടേഷൻ ചെയ്യും മുകളിൽ അതിനാൽ ഈ രണ്ട് ഘട്ടങ്ങളാണ് റീബാലൻസിംഗ് റോടേഷൻ ഇത് മറ്റ് ഘട്ടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഒരു നോഡിൽ റീബാലൻസ് ചെയ്യുന്നത് ആ നോഡിലെ ഒരു സ്ഥിരമായ സംഖ്യയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഓരോ തവണയും നമ്മുടെ ട്രീൽ മാറ്റം വരുത്തുമ്പോൾ അത് ഒരു നോഡിന്റെ സ്ലോപ്പ് ന്റെ ബാലൻസ് അവസ്ഥയെ ബാധിച്ചേക്കാം ഞങ്ങൾ ഒരു ബാലൻസ് ചെയ്യുന്നു അതിനാൽ ഞങ്ങളുടെ മുൻ കോഡിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ട്രീ ഇടതുവശത്ത് ഞങ്ങൾ ഒരു റിക്കസിവ് ഇൻസെർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വീണ്ടും ബാലൻസ് ചെയ്ത ട്രീടെ വലതുഭാഗത്ത് ചേർക്കുന്നു ഞങ്ങൾ ഈ റിബാലൻസ് കോഡ് അവതരിപ്പിക്കുകയും ഇത് ഒരു ഈ നോഡിനായുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ അതിനാൽ നിങ്ങൾ ഇത് എല്ലാ വഴികളിലും ചെയ്യും അതിനാൽ ഇത് സ്ഥിരമായ സംഖ്യാ പ്രവർത്തനങ്ങളിൽ ഒരു ലോഗ് n തവണ ചെയ്യും അതിനാൽ ഇത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ അസിംപ്റ്റോട്ടിക് സങ്കീർണ്ണതയുടെ കാര്യത്തിൽ ഒന്നും ബാധിക്കില്ല ഇത് ഓരോ നോഡിനും സ്ഥിരമായ സമയ പ്രവർത്തനങ്ങളുടെ ലോഗരിഥമിക് സംഖ്യയായിരിക്കും ഡിലീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ആവർത്തിച്ചുള്ള ഡിലീറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ബാലൻസ് ചെയ്യുന്നു തുടർന്ന് ഞങ്ങൾ പരമാവധി മൂല്യം അല്ലെങ്കിൽ പ്രെഡ്സ്സ്സോർ ഇല്ലാതാക്കിയ ഒരു കേസ് ഉണ്ടായിരുന്നു അതിനാൽ വീണ്ടും ഞങ്ങൾ ഒരു ബാലൻസ് ചെയ്യുന്നു അതിനാൽ നമുക്ക് ഉണ്ടായിരുന്നിടത്തെല്ലാം ട്രീടെ ഘടനയെ ബാധിക്കുന്ന ഇൻസേർട് ചെയ്യാനും ഡെലീറ്റ് ചെയ്യുന്നു അതിനാൽ ഈ വിഷയത്തിൽ നമ്മൾ അൽപം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനാൽ ഈ റീബാലൻസ് അവസ്ഥ ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിനാൽ നിങ്ങൾ വീണ്ടും റീബാലൻസ് അവസ്ഥയിലേക്ക് പോകുകയാണെങ്കിൽ അതിനാൽ ബാലൻസ് ചെയ്യുന്നതിന് സ്ലോപ്പ് കണക്കാക്കേണ്ടതുണ്ട് കൂടാതെ വലതുവശത്തെ ഇടത് മൈനസ് ഉയരത്തിന്റെ ഉയരത്തെ നിർവ്വചിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഫ്ലൈയിൽ ഉയരം കണക്കാക്കാൻ കഴിയും ട്രീടെ ഉയരം ആവർത്തിച്ച് കണക്കുകൂട്ടുന്നു അത് പൂജ്യമാണെങ്കിൽ അതിന് ഉയരം 0 അല്ലാത്തപക്ഷം നിങ്ങൾ ഇടത് വശത്തെ ഉയരം ആവർത്തിച്ച് കണക്കുകൂട്ടുകയും തുടർന്ന് ഈ നോഡിനായി കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ പരമാവധി രണ്ട് സബ് ട്രീ എടുത്ത് ഒരെണ്ണം ചേർക്കുക പക്ഷേ നിർഭാഗ്യവശാൽ ട്രീലെ എല്ലാ നോഡുകളും പരിശോധിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു അതിനാൽ ഇത് ട്രീടെ വലുപ്പത്തിന് അനുസൃതമായി നിർദ്ദേശിക്കപ്പെടും അതിനാൽ ഇത് ഒരു വിധത്തിൽ എക്സ്പോണൻഷ്യൽ പ്രവർത്തനമായിരിക്കും പാഥുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ഞങ്ങൾ ലോഗിൻ പ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്നു ഇത് ഒരു ഓർഡർ n ഓപ്പറേഷൻ ആയിരിക്കും അതിനാൽ കാര്യക്ഷമമായി എന്തെങ്കിലും ചെയ്യാനുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമങ്ങളെയും ഇത് കൊല്ലും കാരണം ഉയരം കണക്കാക്കാൻ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത മുഴുവൻ ട്രീ കാണണം പക്ഷേ ഉയരത്തിന്റെ നിലവിലെ മൂല്യം നിലനിർത്തുകയും ഓരോന്നായി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇത് മറികടക്കാൻ കഴിയും അതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഉണ്ട് അതിനാൽ ഞങ്ങളുടെ ട്രീ നോഡിൽ ഉണ്ട് ഞങ്ങൾക്ക് നിലവിൽ മൂല്യമുണ്ട് പാരന്റ് ഇടത് വലത് അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരു ഫീൽഡ് കൂടി ചേർക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ബാലൻസ് ചെയ്യുമ്പോൾ ഈ ട്രീടെ ഉയരം നിലവിലെ നോഡ് മാറ്റിയേക്കാം അതിനാൽ ഞങ്ങൾ ഇൻഡക്റ്റീവ് ആയി നോക്കുന്നു ചുവടെ ഉയരം ശരിയായി സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ പ്രാദേശികമായി ആവശ്യമുള്ള രണ്ട് ഉയരങ്ങൾ ഞങ്ങൾ നോക്കുന്നു ഇപ്പോൾ ഇത് ഒരു മൂല്യം നോക്കുന്നു രണ്ട് ചിൽഡ്രൻ താഴെ രണ്ട് നെയ്ബർ ആണ് അതിനാൽ ഇത് ഇപ്പോൾ ഒരു സ്ഥിരമായ സമയ പ്രവർത്തനമായി മാറുന്നു ഇതിന് മുഴുവൻ ട്രീസ് കടക്കേണ്ട ആവശ്യമില്ല അതിനാൽ ഞങ്ങൾ വീണ്ടും സമതുലിതമാകുമ്പോൾ ഞങ്ങൾ ഉയരങ്ങൾ പുനക്രമീകരിക്കുന്നു നിങ്ങൾ സ്ലോപ്പ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ തവണയും ഞങ്ങൾ രണ്ട് ട്രീടെ മൂല്യം പരിശോധിക്കുകയും അവയുടെ ഉയരത്തിന്റെ വ്യത്യാസം പരിശോധിക്കുകയും വേണം കാരണം നോഡിലെ ഈ ഉയരം ഫീൽഡ് പ്രാദേശികമായി നൽകും അതിനാൽ ഉയരം ആവർത്തിച്ച് കണക്കാക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറിച്ച് ട്രീടെ ഭാഗമായി ഉയരം സംഭരിക്കുകയും ഓരോ അപ്ഡേറ്റിലും അത് അപ്ഡേറ്റ് ചെയ്യുകയും വേണം അതിനാൽ ചുരുക്കത്തിൽ ഹൈറ്റ് ബാലൻസ്ഡ് ബൈനറി സെർച്ച് ട്രീ പരിപാലിക്കാൻ നിങ്ങൾക്ക് റൊട്ടേഷനുകൾ ഉപയോഗിക്കാം തുടർന്ന് ഹൈറ്റ് ബാലൻസ് സെർച്ച് ട്രീ ഹൈറ്റ് വലുപ്പത്തിൽ ലോഗരിത്തമിക് ആയിരിക്കുമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടു ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉയരത്തിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നതിനാൽ അവയെല്ലാം ഒരു പാതയിലൂടെ പോകുന്നതിനാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടെത്തുക ഇൻസേർട് ഡെലീറ്റ് മിനിമം മാക്സിമം പ്രെഡ്സ്സ്സോർ സാക്സിസ്സർ എന്നിവയെല്ലാം ലോഗരിത്തമിക് സമയത്ത് ചെയ്യാൻ കഴിയും